സർവീസ് മാർക്കറ്റിംഗ് വിത്ത് ദി പ്രാക്ടിക്കൽ അപ്രോച്ചിന്റെ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പാഠം നമ്പർ 29 നോക്കും അത് സേവനത്തിന്റെ വില നിർണ്ണയത്തെ കുറിച്ചാണ് അതിൽ രണ്ട് ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ഒരു പുതിയ സേവനത്തിന് വില നിശ്ചയിക്കുക വില നിശ്ചയത്തിന് മൂല്യം നൽകുക എന്നിവയാണ് അത് സേവനത്തിന്റെ വിലനിർണ്ണയം അതിനാൽ നമ്മൾ ഇതുവരെ ഒരു സേവന ഓഫറിന്റെ 6 പി കൾ P's രൂപകൽപ്പന ചെയ്യാൻ പഠിച്ചു അതാണ് സേവന ഉൽപ്പന്നം സേവന പ്രക്രിയ സേവന ഉദ്യോഗസ്ഥർ സേവന ഡെലിവറിയുടെ സ്ഥലം അല്ലെങ്കിൽ ചാനലുകൾ സേവനത്തിന്റെ ഭൌതിക തെളിവുകൾ അതിന്റെ ഉപഭോക്താക്കൾക്കുള്ള സേവനത്തെക്കുറിച്ചുള്ള പ്രമോഷനുകൾ അല്ലെങ്കിൽ ആശയവിനിമയം എന്നിവ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനത്തിന്റെ ചിലവിലേക്ക് ഈ 6 P കൾ ചേർക്കപ്പെടുന്നു ഈ പാഠത്തിൽ സേവനങ്ങളുടെ വിലനിർണ്ണയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും സേവന ബിസിനസിന് വരുമാനം നൽകുന്ന 7 ാമത് പി സേവന ഉൽപ്പന്നവും അതിന്റെ വിതരണവും നമ്മൾ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുമാനം നേടുന്നതിന് വേണ്ടി സേവനത്തിന് എങ്ങനെ വില നൽകണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് ഇനിപ്പറയുന്ന വിഭാഗങ്ങളിൽ വിവരിച്ചിരിക്കുന്നതുപോലെ വില ക്രമീകരണത്തിൽ ആറ് ഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു വിലനിർണ്ണയ ലക്ഷ്യം തിരഞ്ഞെടുക്കുക മാർക്കറ്റ് പെനെട്രേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് സ്കിമ്മിംഗ് എന്നിവയാണ് വിലനിർണ്ണയത്തിന്റെ രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ എതിരാളികൾക്ക് നമ്മുടെ ബിസിനസ്സ് അനുകരിക്കാൻ എളുപ്പമാണെങ്കിൽ മാർക്കറ്റ് പെനെട്രേഷൻ നല്ലതാണ് അതായത് വിപണി വിഹിതം വർദ്ധിപ്പിക്കുക മിക്ക ഉപഭോക്താക്കളും നൽകാൻ തയ്യാറാകുന്ന വിലയ്ക്ക് സേവനങ്ങൾ വിൽക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു മറുവശത്ത് സേവനത്തിന് ധാരാളം ഉയർന്ന സാങ്കേതിക ഘടകങ്ങളുണ്ടെങ്കിൽ അതുപോലെ പുതിയ മത്സരാർഥികൾക്ക് എളുപ്പത്തിൽ അനുകരിക്കാനാവില്ലെങ്കിൽ വിപണനക്കാരന് മാർക്കറ്റ് സ്കിമ്മിങിന് പോകാം അതായത് സേവനങ്ങൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും എതിരാളികൾ ഉയർന്നു വരുമ്പോൾ പതുക്കെ വില കുറയ്ക്കുകയും ചെയ്യാം ഹ്രസ്വകാലത്തേക്ക് ബിസിനസ്സുകൾക്ക് അതിജീവന ലക്ഷ്യം ഉണ്ടായിരിക്കാം അതായത് പിന്നീട് വില ഉയർത്തുന്നതിനു മുമ്പ് വിപണിയിൽ ഉറച്ച ബിസിനസ്സ് സ്ഥാപിക്കുന്നതിന് തൽക്കാലം പ്രവർത്തനച്ചെലവ് നേടാൻ അവർ ആഗ്രഹിക്കുന്നു മറ്റൊരു വിലനിർണ്ണയ ലക്ഷ്യം വില ഗുണനിലവാരമുള്ള നേതൃത്വമായിരിക്കാം അതിൽ വിപണനക്കാർ ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ താങ്ങാവുന്ന വിലയ്ക്ക് നൽകുന്നു അത് എതിരാളികൾക്ക് പൊരുത്തപ്പെടാൻ പ്രയാസമാണ് രണ്ടാമത്തേത് ആവശ്യകതയുടെ വില ഇലാസ്തികത നിർണ്ണയിക്കുക എന്നതാണ് അടുത്ത ഘട്ടത്തിൽ വിവിധ വില തലങ്ങളിൽ സേവനത്തിനായുള്ള ആവശ്യം ഉപഭോക്തൃ സേവനത്തിലൂടെ ലഭിക്കുന്നു അതിൽ ഉപഭോക്താക്കൾക്ക് സേവനം വാങ്ങാൻ തയ്യാറാകുന്ന വില ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടാം വിവിധ തലത്തിലുള്ള സേവനങ്ങൾക്ക് വില നിശ്ചയിക്കുന്നതിനുള്ള ഒരു മികച്ച മാർഗ്ഗം സംയോജിത വിശകലനം എന്ന വിപണന ഗവേഷണ സാങ്കേതികതയാണ് വിശകലനത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത ബദലുകളും വില നിലവാരവും ഉള്ള നിരവധി സെറ്റ് സേവനങ്ങൾ റാങ്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഡാറ്റയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിലൂടെ വിവിധ ഓപ്ഷനുകളുടെയും വിലകളുടെയും ഭാഗം കണ്ടെത്തുകയും ഏറ്റവും ഇഷ്ടപ്പെട്ട സേവന വില കോമ്പിനേഷൻ തിരിച്ചറിയുകയും ചെയ്യുന്നു ഉപഭോക്താക്കൾ നൽകാൻ തയ്യാറാകുന്ന വിലയാണ് വില പരിധിയായി രൂപപ്പെടുത്തുന്നത് അതായത് വില പരിധിക്ക് മുകളിലുള്ള വിലയ്ക്ക് കമ്പനിക്ക് സേവനങ്ങൾ നൽകാൻ കഴിയില്ല ചെലവ് കണക്കാക്കുന്നത് സേവനം നൽകുന്നതിനുള്ള ചെലവ് കണക്കാക്കുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എബിസി എന്ന സാങ്കേതികതയിലൂടെയാണ് ഇതിൽ സേവനം നൽകുന്നതിനുള്ള മൊത്തം ചെലവിൽ എത്തിച്ചേരുന്നതിനായി സേവനം ലഭ്യമാക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ചെലവ് കണക്കാക്കുന്നു ഈ ചെലവ് തറവില രൂപപ്പെടുത്തും ബിസിനസ്സ് പ്രവർത്തനക്ഷമമാക്കുന്നതിന് ഉപഭോക്താക്കളോട് അഭ്യർത്ഥിക്കേണ്ട ഏറ്റവും കുറഞ്ഞ വിലയാണിത് എതിരാളികളുടെ ചെലവ് വിലകൾ ഓഫറുകൾ എന്നിവ വിശകലനം ചെയ്യുന്നു സമാനവും ഇതരവുമായ സേവനങ്ങൾക്കായി എതിരാളികൾ ഈടാക്കുന്ന വില ഉപഭോക്താക്കൾ പുതിയ സേവനത്തിന്റെ വില താരതമ്യം ചെയ്യാൻ സാധ്യതയുള്ള റഫറൻസ് വിലയാവുന്നു എതിരാളികളും നമ്മുടെ കമ്പനിയും നൽകുന്ന ആനുകൂല്യങ്ങളും താരതമ്യം ചെയ്യുന്നു നമ്മുടെ സേവനം എതിരാളികളേക്കാൾ മികച്ചതാണെന്ന് ഉറപ്പായ ശേഷം സേവനത്തിന്റെ വില ഇതര സേവനങ്ങളുടെ വിലയുടെയും നമ്മുടെ സേവനം നൽകുന്ന അധിക ആനുകൂല്യങ്ങൾ നൽകുന്ന അധിക മൂല്യത്തിന്റെയും തുകയായി കണക്കാക്കാം അങ്ങനെ സമാന സേവനങ്ങൾക്കായി ഉപഭോക്താക്കൾ അടയ്ക്കാറുള്ള പതിവ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഇതര മാർഗ്ഗങ്ങളുടെ വിലയെ അടിസ്ഥാനമാക്കി എതിരാളികളുടെ വിലകൾ നമ്മുടെ സേവനങ്ങളുടെ വില മോഡുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഒരു വിലനിർണ്ണയ രീതി തിരഞ്ഞെടുക്കുന്ന അഞ്ചാമത്തേതിൽ ഡെലിവറി ചെലവും മത്സര വിലയും അടിസ്ഥാനമാക്കി പുതിയ സേവനത്തിനുള്ള നിരവധി വില പോയിന്റുകൾ നിർണ്ണയിക്കാനാകും തുടർന്ന് ഓരോ വില പോയിന്റിനും ഡിമാൻഡ് സ്ഥാപിക്കുകയും ബ്രേകീവേൻ ഡിമാൻഡ് കണക്കാക്കുകയും ചെയ്യുന്നു ഒരിക്കൽ ഒരു നിശ്ചിത ആവശ്യം നിറവേറ്റാനാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഡിമാൻഡ് നില ആകർഷിക്കുന്നതിന് വില നിശ്ചയിക്കാനാകും ഡിമാൻഡ് പ്രൈസ് കോമ്പിനേഷൻ ബ്രേകീവേൻ നേടാൻ പ്രാപ്തമാകുമെന്ന് ഇപ്പോൾ ഉറപ്പായിക്കഴിഞ്ഞു അടുത്ത 3 വർഷത്തേക്കുള്ള വിൽപ്പന സേവനങ്ങൾ കണക്കാക്കുകയും ലാഭം കണക്കാക്കുകയും ചെയ്യുന്നു നിക്ഷേപത്തിന്റെ വരുമാനം കണക്കുകൂട്ടാനും നിക്ഷേപത്തിന് കണക്കാക്കിയ വരുമാനം വ്യവസായത്തിന് പൊതുവെ ലഭിക്കുന്നതിനനുസരിച്ചുള്ള വരുമാനവുമായി പൊരുത്തപ്പെടുത്താനും ഇത് നമ്മളെ സഹായിക്കും വരുമാനം നിലവിലുള്ള ബാങ്ക് പലിശ നിരക്കിനേക്കാൾ കൂടുതലാണെന്ന് ഉറപ്പ് വരുത്തുന്നു വിലനിർണ്ണയത്തിൻറെ ഒരു പ്രത്യേക രീതിയാണ് ടാർഗെറ്റ് കോസ്റ്റിംഗ് ഈ രീതിയിൽ ഉപഭോക്താക്കൾ ചെലവാക്കാൻ തയ്യാറാകുന്ന വില ഉപഭോക്തൃ സർവേകളിൽ നിന്ന് കണ്ടെത്തുകയും ബിസിനസിന് പ്രതീക്ഷിക്കുന്ന വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള ചെലവിലും വിലയിലും സേവനം ലഭ്യമാക്കുമെന്ന് ഉറപ്പു വരുത്തുന്നതിനായി സേവന വിതരണ പ്രക്രിയ പരിഷ്കരിക്കുകയും ചെയ്യുന്നു വ്യാപകമായി വാദിക്കപ്പെടുന്ന വിലനിർണ്ണയത്തിന്റെ ഒരു പ്രധാന രീതിയെ വാല്യൂ പ്രൈസിംഗ് എന്ന് വിളിക്കുന്നു യഥാർഥ സാമ്പത്തിക മൂല്യം അല്ലെങ്കിൽ TEV എന്നത് ആവശ്യകത നിറവേറ്റുന്നതിനുള്ള ബദൽ മാർഗ്ഗങ്ങളുടെ വിലയും ഉപഭോക്താവിന്റെ കൈകളിലെ ഏതെങ്കിലും ചെലവ് ലാഭത്തിന്റെ ആകെത്തുകയും അതിൽ നിന്ന് പുതിയ സേവനം സ്വീകരിക്കുന്നതിനുള്ള ചെലവ് കുറക്കുന്നതുമാണ് സൈദ്ധാന്തികമായി ഇതര സേവനങ്ങളുടെ മൂല്യം നൽകുമ്പോൾ പോലും ഉപഭോക്താവ് ലാഭം നേടും എന്നിരുന്നാലും ഉപഭോക്താക്കൾ സേവനത്തിനായി പണമടയ്ക്കാൻ തയ്യാറാകുന്നതനുസരിച്ച് വില പരിഷ്കരിക്കുകയും ആ തലത്തിൽ നിശ്ചയിക്കുകയും ചെയ്യുന്നു ഈ ആശയം ഇപ്പോൾ കൂടുതൽ വിശദമാക്കിയിട്ടുണ്ട് അന്തിമ വില തെരഞ്ഞെടുക്കുക സേവന മാർക്കറ്റിംഗ് മിശ്രിതത്തിന്റെ വിലയും മറ്റ് P കളും സേവന ആശയവുമായി പൊരുത്തപ്പെടണം എന്നത് മനസ്സിൽ വെച്ചിട്ടാണ് അന്തിമ വില തിരഞ്ഞെടുക്കുന്നത് കുറഞ്ഞ നിലവാരമുള്ള ഉയർന്ന വില സേവനങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന നിലവാരമുള്ള കുറഞ്ഞ വില സേവനങ്ങൾ പൊരുത്തപ്പെടുകയില്ല അതേസമയം സേവനത്തിന്റെ ഗുണനിലവാരം അനുസരിച്ച് ഒരു വില സേവനത്തിന്റെ ഗുണനിലവാരം ഉപഭോക്താക്കളുടെ താങ്ങാനാവുന്ന വില ഉപഭോക്താക്കൾക്ക് വില നൽകാനുള്ള സന്നദ്ധത എന്നിവയ്ക്ക് അനുസൃതമായ വില സേവന ദാതാവ് എളുപ്പത്തിൽ നിറവേറ്റുക മത്സരപരവും താരതമ്യപ്പെടുത്താവുന്നതുമായ ഓഫറുകളുടെ വിലയ്ക്ക് അനുസൃതമായി ഒരു വില ഒരു സ്ഥിര വിലയായി കാണപ്പെടും നമ്മുടെ ടാർഗെറ്റ് മാർക്കറ്റിന് സേവനങ്ങൾ വാങ്ങാനും നമ്മുടെ സഹകാരികൾക്ക് ലാഭമുണ്ടാക്കാനും നമ്മുടെ എതിരാളികൾക്ക് അവരുടെ ടാർഗെറ്റ് ഉപഭോക്താക്കൾക്ക് അവരുടെ വില പോയിന്റുകളിൽ അവരുടെ സേവനങ്ങൾ നൽകുന്നത് തുടരാനും കഴിയുന്ന തരത്തിലായിരിക്കണം വില നമ്മുടെ സേവനത്തിന്റെ വില ഉപഭോക്താക്കൾക്ക് നൽകുന്ന മൂല്യവുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് മൂല്യനിർണ്ണയം എന്ന ആശയം ഇനിപ്പറയുന്ന പാഠത്തിൽ വിശദമായി വിവരിച്ചിരിക്കുന്നു ഈ പാഠത്തിൽ ഒരു പുതിയ സേവനത്തിന് വില നിശ്ചയിക്കുന്ന പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തു അടുത്ത പാഠത്തിൽ മൂല്യവില എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക തരം വിലനിർണ്ണയം നമ്മൾ ചർച്ച ചെയ്യും അതിനാൽ 1988 ൽ പ്രൊഫസർ വലേരി എ സെയ്താംൽ Prof Valerie A Zeithaml ഉപഭോക്താക്കൾക്ക് മൂല്യം തിരിച്ചറിയാൻ കഴിയുന്ന നാല് വഴികൾ പ്രസിദ്ധീകരിച്ചു അവ മൂല്യം കുറഞ്ഞ വിലയാണ് ഒരു സേവനത്തിൽ മൂല്യം അയാൾക്ക് ആവശ്യമുള്ളതാണ് മൂല്യം അവൻ നൽകുന്ന വിലയ്ക്ക് ലഭിക്കുന്ന ഗുണമേന്മയാണ് മൂല്യം എന്നത് അവൻ നൽകുന്നതിൽ നിന്ന് അവന് ലഭിക്കുന്നതാണ് ഇവ ഇനി നമ്മൾ ചർച്ച ചെയ്യുകയാണ് മൂല്യം കുറഞ്ഞ വിലയാണ് ഉപഭോക്താക്കൾ ഒരു ശുചീകരണ സേവനത്തിലോ അല്ലെങ്കിൽ വിൽപ്പനയിലോ കിഴിവിലോ നൽകുന്ന സേവനത്തിലോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സേവനം ലഭ്യമാകുന്ന ഹാപ്പി അവേഴ്സ് പോലുള്ളവയിലോ ഏറ്റവും കുറഞ്ഞ വില നോക്കും ടെലിഫോൺ സേവനങ്ങൾ പ്രിയപ്പെട്ടതായിരുന്നപ്പോൾ ഉപഭോക്താക്കൾ രാത്രി 9 മണി വരെ വിളിക്കുന്നതിനായി കാത്തിരിക്കുമായിരുന്നു കാരണം ആ സമയത്തിന് ശേഷം സേവനത്തിന്റെ വില ഗണ്യമായി കുറയും ഒരു സേവനത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നതെന്തും ആണ് മൂല്യം ഉപഭോക്താവ് മികച്ച എംബിഎ ബിരുദമോ ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ സേവനങ്ങളോ സംഗീത കച്ചേരിയുടെ മികച്ച പ്രകടനമോ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മുഴുവൻ സേവനത്തിന്റെയും വില നൽകാൻ ഉപഭോക്താവ് തയ്യാറാകും സേവനം വാങ്ങുന്നതിന്റെ ഫലമായി ഉപഭോക്താവിന് ലഭിക്കുന്ന ഗുണനിലവാരത്തിന്റെയും അന്തസ്സിന്റെയും സൂചനയായിരിക്കും ഉയർന്ന വില എന്നതിനാലും ഉപഭോക്താക്കൾ ഉയർന്ന വില നൽകാൻ ആഗ്രഹിക്കുന്നു മൂല്യം അവൻ നൽകുന്ന സേവനത്തിന് ലഭിക്കുന്ന ഗുണമാണ് ഒരു ഗുണമേന്മയുള്ള ബ്രാൻഡിന്റെ ഏറ്റവും കുറഞ്ഞ വിലയാണിത് അത് താങ്ങാവുന്ന നിലവാരമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതു പോലെ ഉപഭോക്താവ് സേവനത്തിൽ നിന്ന് ലഭിക്കുന്ന യഥാർത്ഥ സാമ്പത്തിക മൂല്യത്തിന് തുല്യമായ വില നൽകേണ്ടതുണ്ട് വിവിധ ഉപഭോക്തൃ വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി ആനുകൂല്യങ്ങൾ വിവിധ തലങ്ങളിൽ വാഗ്ദാനം ചെയ്യുന്നു അതിനനുസരിച്ച് വിലയും നിശ്ചയിക്കുന്നു നാലാമതായി മൂല്യം എന്നത് അവൻ നൽകുന്നതിൽ നിന്ന് അവന് ലഭിക്കുന്നതാണ് അയാൾ അടയ്ക്കുന്ന വിലയ്ക്കനുസരിച്ച് ലഭിക്കുന്ന ശുചീകരണത്തിന്റെ അളവ് പോലെ പ്രൈസ് ഫ്രെയിമിംഗ് എന്നത് ഒരേ തോതിലുള്ള ആനുകൂല്യങ്ങൾക്ക് റഫറൻസ് മത്സര വിലയേക്കാൾ താഴ്ന്ന തലത്തിൽ വില നിശ്ചയിക്കുന്നതാണ് സേവനങ്ങളുടെ ഭാഗങ്ങൾക്ക് വ്യക്തിഗത വില നിശ്ചയിച്ചിട്ടുള്ള ഒരു വിലനിർണ്ണയമാണ് പ്രൈസ് ബണ്ടിലിംഗ് അതേസമയം ആ ഭാഗങ്ങളുടെ ബണ്ടിലുകൾ വ്യക്തിഗത വിലകളുടെ ആകെതുകയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ് ഇത്തരത്തിലുള്ള വിലനിർണ്ണയം ഉപഭോക്താവിന് ആവശ്യമുള്ളത് ആകർഷകമായ വിലയിൽ ലഭിക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്നു കോംപ്ലിമെന്ററി വിലനിർണ്ണയത്തിൽ വിലയുടെ ഒരു ഭാഗം വാങ്ങുന്ന സമയത്ത് അടയ്ക്കേണ്ടതാണ് മറ്റ് ഭാഗം പ്രതിമാസ അല്ലെങ്കിൽ വാർഷിക സബ്സ്ക്രിപ്ഷനുകൾ പോലെ കാലക്രമേണ നൽകും ചില സമയങ്ങളിൽ മുൻനിര സേവനത്തിന് നഷ്ടം ലഭിക്കുന്നിടത്ത് ലോസ് ലീഡർ വിലനിർണ്ണയം നടത്താം അതേസമയം മറ്റ് അനുബന്ധ സേവനങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതിന് ഉയർന്ന വിലയുണ്ട് സേവനത്തെ ആശ്രയിച്ച് ഉപഭോക്താവ് നൽകുന്ന ഫീസ് അല്ലെങ്കിൽ കമ്മീഷനാണ് ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിലനിർണ്ണയം ഉദാഹരണത്തിന് ഒരു വ്യവഹാരത്തിന്റെ ഫലമായി നൽകുന്ന ചിലവിന്റെ ഒരു ശതമാനം ഉപഭോക്താക്കൾ ഒരു അഭിഭാഷകന് നൽകേണ്ടതായി വന്നേക്കാം അതുപോലെ വസ്തു വിൽക്കുന്ന വിലയുടെ ശതമാനമായി വസ്തു വിൽക്കുന്നതിനുള്ള ബ്രോക്കറേജ് ചാർജുകൾ ക്ലയന്റ് നൽകേണ്ടി വരും സേവനം നൽകുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന സമ്പാദ്യത്തിന്റെ ഗ്യാരണ്ടിയോടു കൂടിയ ഒരു നിശ്ചിത വില നൽകണമെന്ന് അത്തരം ആകസ്മിക വിലനിർണ്ണയം പ്രസ്താവിച്ചേക്കാം ഈ സെഷൻ ശ്രദ്ധിച്ചതിന് നന്ദി ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെയധികം നന്ദി